ഒരിക്കൽ കൂടി സ്വാഗതം ഇത് 51 ആം നമ്പർ ലക്ച്ചർ ആണ് ഇപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ എന്ന ഒരു പുതിയ വിഷയവുമായി തുടരുന്നതായിരിക്കും ഡിഫറൻഷ്യൽ സമവാക്യങ്ങളുടെ ആമുഖത്തിലേക്കും അവയുടെ വിവരങ്ങളിലേക്കും ഇന്നത്തെ ലക്ച്ചർ തിരിച്ചുവിടുന്നു എന്താണ് ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ ഒന്നോ അതിലധികമോ ഇൻഡിപെൻഡൻറ് വേരിയബിൾകളുമായി ബന്ധപ്പെട്ട് ഒന്നോ അതിലധികമോ ഡിപെൻഡൻറ് വേരിയബിൾകളുടെ ഡെറിവേറ്റീവ്കൾ അഥവാ ഡിഫറൻഷ്യൽകൾ ഉൾപ്പെടുന്ന ഒരു സമവാക്യത്തെ ഡിഫറൻഷ്യൽ സമവാക്യം എന്ന് വിളിക്കുന്നു ഡിഫറൻഷ്യൽ സമവാക്യങ്ങളുടെ ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു ഈ സമവാക്യങ്ങളിൽ ഡെറിവേറ്റീവുകൾ ഉൾപ്പെടുന്ന പദങ്ങൾ നമുക്കുണ്ട് അതിനാൽ സമവാക്യങ്ങളെ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ എന്ന് വിളിക്കുന്നു

ഇതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ സമവാക്യംആണ് കാരണം ഇതിലെ ഡെറിവേറ്റീവുകൾ ഓർഡിനറി ഡെറിവേറ്റീവുകൾ എന്ന അർത്ഥത്തിലാണ് ഇതിൽ x എന്ന ഒരു ഇൻഡിപെൻഡൻറ് വേരിയബിൾ മാത്രമേയുള്ളൂ y എന്നത് x നെ ആശ്രയിച്ചുള്ള ഡിപെൻഡൻറ് വേരിയബിളാണ് രണ്ടാമത്തെ സമവാക്യവും ഓർഡിനറി ഡിഫറൻഷ്യൽ സമവാക്യമാണ് ഇവിടെ dx dy എന്നീ ഡിഫറൻഷ്യൽ പദങ്ങളുണ്ട് ഇതിന് ഓർഡിനറി ഡെറിവേറ്റീവുകൾ മാത്രമേ ഉള്ളൂ y എന്ന ഒരു ഡിപെൻഡൻറ് വേരിയബിളും x ഒരു ഇൻഡിപെൻഡൻറ് വേരിയബിളും മാത്രം ഈ ഉദാഹരണത്തിൽ ഇവിടെ നമുക്ക് x t എന്നീ രണ്ട് ഇൻഡിപെൻഡൻറ് വേരിയബിൾകൾ ഉണ്ട് ഇത് x t എന്നീ രണ്ട് വേരിയബിളുകളെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ സമവാക്യത്തിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്കൾ എന്ന ആശയം ഇവിടെയുണ്ട് അതിനാൽ ഇതിനെ പാർഷ്യൽ ഡിഫറൻഷ്യൽ സമവാക്യം അഥവാ പിഡിഇ എന്ന് വിളിക്കുന്നു കാരണം ഇവിടെ നമുക്കുള്ളത് ഓർഡിനറി ഡെറിവേറ്റീവുകൾ അല്ല പാർഷ്യൽ ഡെറിവേറ്റീവുകൾ ആണ് ഡിഫറൻഷ്യൽ സമവാക്യങ്ങളിൽ സമവാക്യത്തിന്റെ ഓർഡർ എന്ന മറ്റ് ക്ലാസിഫിക്കേഷനുകളുണ്ട് എന്താണ് ഒരു ഡിഫറൻഷ്യൽ സമവാക്യത്തിൻറെ ഓർഡർ ഒരു സമവാക്യത്തിൽ അടങ്ങിയിട്ടുള്ള ഡെറിവേറ്റീവ്കളുടെ ഏറ്റവും ഉയർന്ന ഓർഡറിനെ ആണ് ആ സമവാക്യത്തിൻറെ ഓർഡർ എന്നു വിളിക്കുന്നത് ഉദാഹരണത്തിന് ഈ ആദ്യ സമവാക്യത്തിൽ ഏറ്റവും ഉയർന്ന ഓർഡർ ഡെറിവേറ്റീവ് 4 ആണ് അതിനാൽ ഈ സമവാക്യത്തിന്റെ ഓർഡർ 4 ആയിരിക്കും സമാനമായി ഈ രണ്ട് സമവാക്യങ്ങളുടെയും ഓർഡർകളെക്കുറിച്ച് സംസാരിക്കാവുന്നതാണ് ഇവിടെ നമ്മൾ ഡിഗ്രി എന്ന മറ്റൊരു പദം ഉപയോഗിക്കുന്നു ഡിഗ്രി എന്നത് സമവാക്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏറ്റവും ഉയർന്ന ഓർഡർ ഡെറിവേറ്റീവുകളുടെ ഡിഗ്രി ആയിരിക്കും ഉദാഹരണത്തിന് ഈ സമവാക്യത്തിൽ ഏറ്റവും ഉയർന്ന ഡെറിവേറ്റീവ് ഇതാണ് ഇവിടെ പവർ 1 അഥവാ ഈ പദത്തിന്റെ ഡിഗ്രി 1 ആണ് അതിനാൽ ഇത് ഒരു ഫസ്റ്റ് ഡിഗ്രി ഫോർത്ത് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം ആണ് ഈ സമവാക്യത്തിൽ വീണ്ടും ഓർഡർ 1 ആണ് കാരണം നമുക്ക് ഏറ്റവും ഉയർന്ന ഓർഡർ ഉള്ളത് ഫസ്റ്റ് ഓർഡറാണ് dy dx എന്നീഡെറിവേറ്റീവ് പദങ്ങൾ അല്ലാതെ മറ്റൊന്നും ദൃശ്യമാകുന്നില്ല അതുകൊണ്ട് ഇതിൻറെ ഡിഗ്രി ഒന്നാണ് ഈ കേസിൽ ഇവിടെ ഓർഡർ 3 ആണ് കാരണം മൂന്നാം ഓർഡർ ഡെറിവേറ്റീവ് പദങ്ങൾ ഉണ്ട് ഇതിൻറെ ഡിഗ്രി 2 ആണ് കാരണം ഏറ്റവും ഉയർന്ന ഓർഡർ ഡെറിവേറ്റീവ് ഡിഗ്രി 2 ൽ ദൃശ്യമാകുന്നു അതിനാൽ ഈ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ഡിഗ്രി രണ്ടും ഓർഡർ മൂന്നും ആണ് ലീനിയർ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ പോലുള്ള കൂടുതൽ ക്ലാസ്സിഫിക്കേഷനുകളെകുറിച്ചാണ് ഇനി സംസാരിക്കുന്നത് ഓരോ ഡിപെൻഡൻറ് വേരിയബിളും എല്ലാ ഡെറിവേറ്റീവുകളും ഫസ്റ്റ് ഡിഗ്രിയിൽ മാത്രം സംഭവിക്കുന്നുവെങ്കിൽ നാം ഒരു ഡിഫറൻഷ്യൽ സമവാക്യത്തെ ലീനിയർ എന്ന് വിളിക്കുന്നു ഗുണനഫലം ആയിട്ടോ പവർ ആയിട്ടോ ഉള്ള പദങ്ങളെ നമ്മൾ കാണുന്നില്ലെങ്കിൽ നമുക്കൊരു ലീനിയർ പദം ഉണ്ട് എന്നതാണ് അതിനാൽ ഒരു ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യത്തിൽ ഡിപെൻഡൻറ് വേരിയബിൾ ഡെറിവേറ്റീവ്മായോ അല്ലെങ്കിൽ അവയുടെ ഡെറിവേറ്റീവ്കൾ തമ്മിലോ ഉള്ള ഗുണനം സംഭവിക്കുന്നില്ല എന്നർത്ഥം ഡിഫറൻഷ്യൽ സമവാക്യം ലീനിയർ അല്ലെങ്കിൽ അതിനെ നമ്മൾ നോൺ ലീനിയർ സമവാക്യം എന്ന് വിളിക്കുന്നു അതിനാൽ ഒരു നോൺ ലീനിയർ സമവാക്യത്തിൽ ഡിപെൻഡൻറ് വേരിയബിൾ ഡെറിവേറ്റീവ്മായോ അല്ലെങ്കിൽ ഡെറിവേറ്റീവ്കൾ തമ്മിലോ ഉള്ള ഗുണനം നിലനിൽക്കും ലീനിയർ സമവാക്യത്തിൽ ഗുണനഫലം ആയിട്ടോ പവർ ആയിട്ടോ ഉള്ള പദങ്ങൾ ഇല്ലാത്തതിനാൽ അതിൻറെ ഡിഗ്രി ഒന്ന് ആയിരിക്കും എന്നത് വ്യക്തമാണ് എന്നാൽ ഓരോ ഫസ്റ്റ് ഡിഗ്രി സമവാക്യവും ലീനിയർ ആയിരിക്കണമെന്നില്ല ഉദാഹരണത്തിന് ഇവിടെ ഇത് ഒരു സെക്കൻഡ് ഓർഡർ സമവാക്യമാണ് ഇതിൻറെ ഡിഗ്രി ഇവിടെ 1 ആണ് കാരണം ഡിഗ്രി എന്നത് ഏറ്റവും ഉയർന്ന ഓർഡർ ഡെറിവേറ്റീവ്ന്റെ ഡിഗ്രിയായി നിർവചിക്കപ്പെട്ടിരിക്കുന്നു ydydx എന്ന ഈ ഗുണനഫലം കാരണം ഈ സമവാക്യം ലീനിയർ അല്ലാത്തതാണ് അതിനാൽ ഇത് ഒരു ഫസ്റ്റ് ഡിഗ്രി നോൺലീനിയർ സമവാക്യം ആണ് അതിനാൽ ഓരോ ലീനിയർ സമവാക്യവും ഫസ്റ്റ് ഡിഗ്രിയിലാണ് എന്നാൽ ഓരോ ഫസ്റ്റ് ഡിഗ്രി സമവാക്യവും ലീനിയർ ആയിരിക്കണമെന്നില്ല ഇനി ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സൊലൂഷൻലേക്ക് വരുന്നു ഡെറിവേറ്റീവ് പദങ്ങളില്ലാതെ ഡിപെൻഡൻറ് വേരിയബിൾകളും ഇൻഡിപെൻഡൻറ് വേരിയബിൾകളും തമ്മിലുള്ള ഏതൊരു ബന്ധത്തെയും സമവാക്യത്തിന്റെ സൊല്യൂഷൻ എന്നു വിളിക്കുന്നു സൊലൂഷൻൽ ഡെറിവേറ്റീവുകൾ കാണുകയില്ല ഡെറിവേറ്റീവുകൾ ഡിഫറൻഷ്യൽ സമവാക്യത്തിലായിരിക്കും അതിനാൽ ഡിഫറൻഷ്യൽ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്ന ഡിപെൻഡൻറ് വേരിയബിൾകളും ഇൻഡിപെൻഡൻറ് വേരിയബിൾകളും തമ്മിലുള്ള ഏത് ബന്ധത്തെയും ഒരു സൊലൂഷൻ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ഇന്റഗ്രൽ എന്നു വിളിക്കുന്നു ഉദാഹരണത്തിന് നമ്മൾ y Ax B തമ്മിലുള്ള ഈ ബന്ധം എടുക്കുന്നു നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിലേക്ക് പോകുന്നു അതിനാൽ അതാണ് രണ്ടാമത്തെ ഓർഡർ ഡെറിവേറ്റീവ് നമ്മൾ ഇവ സമവാക്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഉം പ്ലസ് ഈ 2x ഗുണിക്കണം ഇവിടെയുള്ള ഫസ്റ്റ് ഓർഡർ പദം അതിനാൽ ഇവിടെ കാണുന്ന ഉം ഇവിടെ ഉം ക്യാൻസൽ ആവുകയും സമവാക്യത്തിന്റെ വലതുവശത്തുള്ള 0 നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു എന്ന ഈ ബന്ധം ഈ ഡിഫറൻഷ്യൽ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നു എന്നതുകൊണ്ട് അത് ഈ ഡിഫറൻഷ്യൽ സമവാക്യത്തിൻറെ ഒരു സൊലൂഷൻ ആണ് എന്നത് നമ്മൾ നിരീക്ഷിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ രൂപീകരണ ദിശയിലേക്ക് പോകും അതിനുമുമ്പ് നമുക്ക് കർവുകളുടെ ഫാമിലി എന്നതിനെക്കുറിച്ച് പരിചയപ്പെടേണ്ടതുണ്ട് ഒരു n പാരാമീറ്റർ കർവുകളുടെ ഫാമിലി എന്നത് എന്ന രൂപത്തിൽ x y എന്നിവ തമ്മിലുള്ള ബന്ധങ്ങളുടെ ഗണമാണ് ഈ പാരാമീറ്ററുകൾ മാറ്റുന്നതിലൂടെ നിങ്ങൾക്ക് വ്യത്യസ്ത കർവുകൾ ലഭിക്കും അതാണ് കർവുകളുടെ ഒരു ഫാമിലി കാരണം ഈ c കളുടെ വ്യത്യസ്ത മൂല്യങ്ങൾക്ക് അനുസരിച്ച് വ്യത്യസ്ത കർവുകൾ ഉണ്ട് ഉദാഹരണങ്ങൾഉണ്ട് ഇവിടെ കേന്ദ്രീകൃത സർക്കിളുകളുടെ ഈ സെറ്റ് എടുത്താൽ അതായത് x2 y2 c അതിൽ c എന്നത് ഒരു പാരാമീറ്ററാണ് അതിനാൽ ഇത് ഒരു 1 പാരാമീറ്റർ ഫാമിലി ആണ് ഇവിടെ x2 y2 എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം എന്നതിനാൽ c യുടെ മൂല്യം നെഗറ്റീവ് അല്ലാത്ത റിയൽ നമ്പറുകൾ ആയിരിക്കും ഒപ്പം c യുടെ വ്യത്യസ്ത മൂല്യങ്ങൾക്ക് ഇവ ഒരേ കേന്ദ്രത്തിലുള്ള സർക്കിളുകളുടെ സമവാക്യങ്ങളാണ് അതിനാൽ ഇവ ഒരു പരാമീറ്റർ മാത്രമുള്ള കർവുകളുടെ ഒരു ഫാമിലി ആണ് c മാറ്റുന്നത് തുടരുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരേ കേന്ദ്രത്തിൽ വ്യത്യസ്ത ആരങ്ങളിൽ ഉള്ള സർക്കിളുകൾ ലഭിക്കുന്നു കേന്ദ്രവും അതുപോലെ ആരവും വ്യത്യാസപ്പെടുത്തി കൊണ്ട് വീണ്ടും നമുക്ക് സർക്കിളുകളുടെ ഗണം എടുക്കാം അതിനാൽ ഇവിടെയുള്ള എല്ലാ സർക്കിളുകളുടെയും ഗണം ഇതാണ് നമുക്ക് c1 c2 c3 എന്നിവ നെഗറ്റീവ് അല്ലാത്ത റിയൽ നമ്പർ ആയിട്ട് തിരഞ്ഞെടുക്കാം അതിനാൽ ഈ കേസിൽ ഇത് c1 c2 c3 എന്നീ മൂന്ന് പാരാമീറ്ററുകളുടെ ഫാമിലിയാണ് മുമ്പത്തേത് ഒരു പാരാമീറ്ററിന്റെ ഫാമിലി ആയിരുന്നു കാരണം ആരം മാത്രമേ ആ കേസിൽ വ്യത്യാസപ്പെട്ടിരുന്നുള്ളൂ ഈ ഫാമിലിയിൽ നമുക്ക് വ്യത്യസ്ത കേന്ദ്രങ്ങളും വ്യത്യസ്ത ആരങ്ങളും ഉള്ള സർക്കിളുകൾ ഉണ്ട് അതിനാൽ ഇതൊരു 3 പരാമീറ്റർ സർക്കിളുകളുടെ ഫാമിലി ആണ് ഈ കർവുകളുടെ ഫാമിലി എന്നത് മുമ്പ് ഒരു ഉദാഹരണത്തിൽ നാം കണ്ട ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സൊല്യൂഷൻ ആണെന്ന് നമ്മൾ നിരീക്ഷിക്കുന്നു മറ്റൊന്നുമല്ല അടുത്ത സ്ലൈഡുകളിൽ നമ്മൾ നിരീക്ഷിക്കുന്ന കർവുകളുടെ ഫാമിലിയാണ് നൽകിയിരിക്കുന്ന n പാരാമീറ്റർ ഫാമിലി കർവുകൾക്ക് അനുസരിച്ചുള്ള ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ രൂപീകരണം എങ്ങനെ ചെയ്യാം നമുക്ക് ഒരു n പാരാമീറ്റർ ഫാമിലി കർവുകൾ ഉണ്ടെങ്കിൽ അത് ഒരു ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സൊല്യൂഷൻ ആണ് എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ n ആർബിട്രറി കോൺസ്റ്റന്റുകൾ അടങ്ങിയിട്ടുള്ള കർവുകളുടെ ഫാമിലിയിൽ നിന്ന് അതിനോട് അനുബന്ധമായുള്ള ഒരു nth ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം നമുക്ക് ലഭിക്കും ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ഓർഡർ യഥാർത്ഥത്തിൽ നമ്മൾ എത്ര പാരാമീറ്റർ ഫാമിലി എടുത്തിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും നൽകിയ സമവാക്യത്തെ n തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുക നമുക്ക് n അധിക സമവാക്യങ്ങൾ ലഭിക്കുന്നു നമുക്കുണ്ടായിരുന്ന n പരാമീറ്റർ ഫാമിലി സമവാക്യം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് തുടരുകയാണെങ്കിൽ ആകെ n അധിക സമവാക്യങ്ങൾ കിട്ടുന്നു ഈ അധിക n സമവാക്യങ്ങൾ പ്ലസ് മുമ്പുണ്ടായിരുന്ന ഒരു സമവാക്യം എല്ലാം ചേർത്ത് n1 സമവാക്യങ്ങൾ അവ ഉപയോഗിച്ച് പരാമീറ്ററുകളെ ഇല്ലാതാക്കുന്നു അങ്ങനെ നമുക്ക് ഡെറിവേറ്റീവ്കൾ ഇൻഡിപെൻഡൻറ് വേരിയബിളുകൾ ഡിപെൻഡൻറ് വേരിയബിൾ എന്നിവ മാത്രമുള്ള പരാമീറ്ററുകളിൽ നിന്നും ഇൻഡിപെൻഡൻറ്മായ ഒരു nth ഓർഡർ differential ഇക്വേഷൻ കിട്ടുന്നു ഇത് ഇവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഉദാഹരണങ്ങളുടെ സഹായത്തോടെ നമുക്ക് കാണാം ഈ ഉദാഹരണം ഇവിടെ പരിഗണിക്കുന്നു എന്ന ഈ ബന്ധം തൃപ്തിപ്പെടുന്ന ഒരു ഡിഫറൻഷ്യൽ സമവാക്യം നമുക്ക് ലഭിക്കും ഇത് a b എന്നിവ ആർബിട്രറി കോൺസ്റ്റന്റുകളായിട്ടുള്ള 2 പാരാമീറ്റർ ഫാമിലിയാണ് ഈ ബന്ധത്തിന്റെ ഡെറിവേറ്റീവുകൾ എടുത്ത ശേഷം ഈ രണ്ട് കോൺസ്റ്റന്റുകളെയും സമവാക്യങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ അനുബന്ധ സമവാക്യമായിട്ട് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇവിടെ നമുക്ക് എന്ന കർവുകളുടെ ഫാമിലി ഉണ്ട് ഇതിനെ നമ്മൾ x അടിസ്ഥാനമാക്കി ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത് നമുക്ക് എന്നുകിട്ടുന്നു x അടിസ്ഥാനമാക്കി ഒരു തവണ മാത്രമാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരിക്കൽ കൂടി x അടിസ്ഥാനമാക്കി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം കാരണം സമവാക്യത്തിലെ ആർബിട്രറി കോൺസ്റ്റന്റുകളെ ഇപ്പോഴും ഇതിൽ കാണാൻ സാധിക്കുന്നു ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ലഭിക്കും ഇപ്പോൾ നമ്മൾ ഇത് ഇതിനകം രണ്ട് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തു ഇനി നമ്മൾ ഈ കോൺസ്റ്റന്റുകളെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് തന്നിരുന്ന ബന്ധത്തിൽ ഉണ്ടായിരുന്ന എന്നത് നമ്മൾ ഇവിടെയും കാണുന്നു നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ എന്നത് മാറ്റി പകരം എന്ന ഈ സമവാക്യത്തിൽ ഇടുകയാണെങ്കിൽ ഇതിലെ കോൺസ്റ്റന്റുകൾ നീക്കംചെയ്യുകയും ഡെറിവേറ്റീവ് പദങ്ങൾ ഡിപൻഡന്റ് വേരിയബിളുകൾ ഇൻഡിപെൻഡന്റ് വേരിയബിളുകൾ എന്നിവമാത്രം അടങ്ങുന്ന എന്ന ഒരു സമവാക്യം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു ഇതിനെ സമവാക്യം നമ്പർ 1 എന്ന് വിളിക്കുന്നു ഇപ്പോൾ നമുക്ക് രണ്ട് പാരാമീറ്ററുകളുള്ള ഈ കർവുകകളുടെ ഫാമിലിയുമായി യോജിക്കുന്ന ഈ ഡിഫറൻഷ്യൽ സമവാക്യം ലഭിച്ചു അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സൊല്യൂഷൻ ഒന്നുമല്ല മറിച്ച് 2 പാരാമീറ്റർ കർവുകളുടെ ഈ ഫാമിലിആണ് നൽകിയിരിക്കുന്ന ഫാമിലി കർവുകൾക്ക് അനുസരിച്ചുള്ള ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ രൂപീകരണം എങ്ങനെ പ്രാവർത്തികമാണ് എന്നതിനെക്കുറിച്ചായിരുന്നു പ്രധാനമായും ഇതുവരെയുള്ള ലക്ച്ചർ വരാനിരിക്കുന്ന ലെക്ച്ചറുകളിൽ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിൽ നിന്ന് ഈ കർവുകളുടെ ഫാമിലിയെ എങ്ങനെ കണ്ടെത്താം എന്ന് നിങ്ങൾക്ക് കാണാം ജനറൽ സൊല്യൂഷൻ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്നീ ആശയങ്ങൾ നമുക്കുണ്ട് അതിനാൽ ഇത് ഒരു nth ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം ആണെന്നിരിക്കട്ടെ ഇവിടെ നമുക്ക് nth ഓർഡർ ഡെറിവേറ്റീവുകളും മറ്റ് ലോവർ ഓർഡർ ഡെറിവേറ്റീവുകളും ഉണ്ട് y എന്നത് x മായുള്ള ഒരു ഡിപെൻഡൻറ് വേരിയബിൾ ആണ് n ഇൻഡിപെൻഡൻറ് ആർബിട്രറി കോൺസ്റ്റന്റുകൾ അടങ്ങിയ സൊല്യൂഷനെയാണ് ജനറൽ സൊല്യൂഷൻ എന്നു വിളിക്കുന്നത് ഒരു 2 പരാമീറ്റർ കർവുകകളുടെ ഫാമിലിയിൽ നിന്ന് അതിൻറെ അനുബന്ധ ഡിഫറൻഷ്യൽ സമവാക്യം ഒരു സെക്കൻഡ് ഓർഡർ സമവാക്യം ആയിരിക്കുമെന്ന് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ നിരീക്ഷിച്ചു ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യ ത്തിൻറെ സൊല്യൂഷൻൽ 2 ആർബിട്രറി കോൺസ്റ്റന്റുകൾ എപ്പോഴും ഉണ്ടായിരിക്കും n ഇൻഡിപെൻഡൻറ് ആർബിട്രറി കോൺസ്റ്റന്റുകൾ അടങ്ങിയ സൊല്യൂഷൻ എന്ന് ഒരു ഡിഫറൻഷ്യൽ സമവാക്യത്തിൻറെ ജനറൽ സൊലൂഷന് കൃത്യമായി നിർവചനം നൽകാം തന്നിരിക്കുന്ന nth ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യത്തിൻറെ ഏതെങ്കിലും ഒരു സൊലൂഷൻൽ n എന്ന ഓർഡർൻറെ അത്രയും എണ്ണം ആർബിട്രറി കോൺസ്റ്റന്റുകളുണ്ടെങ്കിൽ ഈ സൊലൂഷനെ ജനറൽ സൊലൂഷനെന്ന് വിളിക്കുന്നു പർട്ടിക്കുലർ സൊലൂഷനെക്കുറിച്ചാണ് മറ്റൊന്ന് നമുക്ക് സംസാരിക്കാൻ ഉള്ളത് ഡിഫറൻഷ്യൽ സമവാക്യത്തോടൊപ്പം നൽകിയിട്ടുള്ള മറ്റ് ചില അനുബന്ധ ഘടകങ്ങളെ ആശ്രയിച്ചുള്ള മൂല്യങ്ങൾ ഈ കോൺസ്റ്റന്റുകൾക്ക് നൽകുന്നു ജനറൽ സൊല്യൂഷൻ എന്നത് n പരാമീറ്റർ കർവുകളുടെ ഫാമിലി അല്ലാതെ മറ്റൊന്നുമല്ല എന്നതിനാൽ സമവാക്യത്തോടൊപ്പം തന്നിരിക്കുന്ന മറ്റ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കോൺസ്റ്റന്റുകൾക്ക് മൂല്യങ്ങൾ നൽകാൻ കഴിയുന്നു ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ എന്നത് ഒരു പ്രത്യേക കർവിനെയാണ് അർത്ഥമാക്കുന്നത് അതിനാൽ ഡിഫറൻഷ്യൽ സമവാക്യത്തിനൊപ്പം മറ്റ് ചില അനുബന്ധ വ്യവസ്ഥകൾ നൽകുമ്പോൾ മാത്രമേ അത് സാധ്യമാകൂ ഈ അനുബന്ധ വ്യവസ്ഥകളുമായി തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിൻറെ പർട്ടിക്കുലർ സൊലൂഷൻഉകൾ നമുക്ക് ലഭിക്കും അതിനാൽ ഇവിടെ പർട്ടിക്കുലർ സൊല്യൂഷൻ അർത്ഥമാക്കുന്നത് ഒന്നോ അതിലധികമോ ഇൻഡിപെൻഡൻറ് കോൺസ്റ്റന്റുകൾക്ക് പ്രത്യേക മൂല്യങ്ങൾ നൽകുന്ന സൊലൂഷൻ ആണ് സാധാരണയായി ഇത് ചെയ്യുന്നത് ഭൌതിക മാതൃകയിൽ നിന്നാണ് ഭൌതികപ്രശ്നത്തിന്റെ കൂടെ നൽകിയിട്ടുള്ള ചില അധിക ഭൌതികവ്യവസ്ഥകൾ അടിസ്ഥാനമാക്കിയാണ് ഈ കോൺസ്റ്റന്റുകളിൽ ചിലത് അല്ലെങ്കിൽ എല്ലാം കണക്കാക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സൊലൂഷൻൽ ഇൻഡിപെൻഡൻറ്ആയ ആർബിട്രറി കോൺസ്റ്റന്റുകളൊന്നും തന്നെ ഉണ്ടാവുകയില്ല അതിനാൽ ഇതിനെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് നമ്മൾ വിളിക്കുന്നു കൂടാതെ ഒരു ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സൊലൂഷൻലെ ആർബിട്രറി കോൺസ്റ്റന്റുകളുടെ എണ്ണം ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ക്രമത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ ഇതിനകം ചർച്ചചെയ്തു nth ഓർഡറിന്റെ ജനറൽ സൊലൂഷൻൽ n ആർബിട്രറി കോൺസ്റ്റന്റുകൾ അടങ്ങിയിരിക്കാമെന്ന് ഉദാഹരണങ്ങളിലൂടെയെങ്കിലും നാം കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിലൂടെ പോകാം ഇവിടെ നമുക്ക് എന്ന ഡിഫറൻഷ്യൽ സമവാക്യം ഉണ്ട് ഇതിന് ഒരു ജനറൽ സൊലൂഷൻഉണ്ട് ഇവിടെ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുന്നതിന്ഉള്ള ടെക്നിക് വിദ്യകൾ കണ്ടെത്തുകയോ ഏതെങ്കിലും ടെക്നിക് വിദ്യകൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല അവ നമ്മൾ അടുത്ത ലെക്ച്ചറിൽ ചർച്ചചെയ്യപ്പെടുന്നതായിരിക്കും ഇവിടെ നമ്മൾ നിർവചനങ്ങൾ നൽകുക മാത്രമാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് എന്ന്എടുക്കുന്നു ഇത് ഈ ഡിഫറൻഷ്യൽ സമവാക്യം തൃപ്തിപ്പെടുത്തുന്ന ഒരു സൊലൂഷൻ ആണ് നിങ്ങൾ dydx ഇവിടെ എടുത്താൽ അത് രണ്ട് മടങ്ങ് x മൈനസ് c സ്ക്വയർ ആയിരിക്കും ഈ ഡിഫറൻഷ്യൽ സമവാക്യത്തിൽ നമ്മൾ സബ്സ്റ്റിട്യൂട് ചെയ്താൽ 2 യുടെ സ്ക്വയർ മൈനസ് y 2 ന്റെ നാലിരട്ടി എന്നു വരുന്നു ഇവിടെയും നമുക്ക് 42 ഉണ്ട് അവിടെയും 42 ഉണ്ട് അതിനാൽ അവ ക്യാൻസൽ ആവുകയും ഈ സൊല്യൂഷൻ ഈ ഡിഫറൻഷ്യൽ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നതാണെന്നും നമുക്ക് നിരീക്ഷിക്കാം അതിനാൽ ഇത് ഒരു ജനറൽ സൊലൂഷൻ ആണ് ഇതിൽ c എന്ന ആർബിട്രറി കോൺസ്റ്റന്റ് അടങ്ങിയിരിക്കുന്നു c യുടെ ഏത് മൂല്യത്തിനും ഇത് ഡിഫറൻഷ്യൽ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തും അത് നമ്മൾ നിരീക്ഷിച്ചതാണ് ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ഓർഡർ ഒന്നായിരുന്നു ഇതിൻറെ സൊലൂഷൻൽ നമുക്ക് 1 ആർബിട്രറി കോൺസ്റ്റന്റുമുണ്ട് അതിനാൽ ഇതിനെ ഒരു ജനറൽ സൊല്യൂഷൻ എന്നു നമ്മൾ വിളിക്കുന്നു c യുടെ ഏതൊരു മൂല്യത്തിലും ഒരു സൊല്യൂഷൻ ഉണ്ട് എന്നതിനാൽ c ക്ക് നേരിട്ട് എന്തെങ്കിലും മൂല്യം നൽകാൻ നമുക്ക് കഴിയും c 0 എന്ന് കൊടുത്താൽ നമുക്ക് പരാബോള എന്ന് വിളിക്കുന്ന എന്ന സൊല്യൂഷൻ കിട്ടുന്നു ഇത് ഒരു നിശ്ചിത പരാബോളയാണ് എന്നാൽ ഇവിടെ y 2 എന്ന പരാബോള c എന്ന ഈ പാരാമീറ്ററിനെ ആശ്രയിച്ചിരിക്കുന്നു ഇത് പരാബോളകളുടെ ഒരു ഫാമിലി ആയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഫാമിലി യിൽ നിന്നുള്ള ഒരു പ്രത്യേക കർവാണ് നമുക്കുള്ളത് അതിനാൽ നമ്മൾ ഇതിനെ ജനറൽ സൊലൂഷൻറെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നു ഇതായിരുന്നു ജനറൽ സൊല്യൂഷൻ രണ്ടും സൊലൂഷൻകളാണ് ഒന്ന് ജനറൽ സൊല്യൂഷൻ മറ്റൊന്ന് പർട്ടിക്കുലർ സൊല്യൂഷൻ അഥവാ 1 പാരാമീറ്റർ കർവുകളുള്ള ഈ ഫാമിലിയിൽ നിന്നുള്ള പ്രത്യേക കർവ് ആണ് നമുക്ക് ഇവിടെ മറ്റൊരു ഉദാഹരണം കാണാം ഇത് ഉദാഹരണ നമ്പർ 2 ആണ് ഇവിടെ നമ്മൾ ഈ എന്ന സമവാക്യം പരിഗണിക്കുന്നു പിന്നീട് നമ്മൾ ചർച്ചചെയ്യുന്ന ഒരു ടെക്നിക് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എന്നത് ഈ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ജനറൽ സൊല്യൂഷൻ ആയി വരുന്നതാണ് ഇവിടെ നമുക്ക് ഒരു 1 പാരാമീറ്റർ ഫാമിലി ഉണ്ട് ഈ സമവാക്യത്തിലെ ഒരേയൊരു പാരാമീറ്റർ c മാത്രമാണ് അതിനാൽ ഇത് ഒരു 1 പാരാമീറ്റർ കർവുകളുടെ ഫാമിലിയാണ് നമുക്ക് അത് എളുപ്പത്തിൽ പരിശോധിക്കാൻ കഴിയും അതിനാൽ അത് ഈ c യുടെ ഏത് മൂല്യത്തിനും ഈ ഡിഫറൻഷ്യൽ സമവാക്യം തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു അതിനാൽ ഇതൊരു ജനറൽ സൊല്യൂഷൻ ആണ് കാരണം നമുക്ക് നൽകിയിരുന്ന ഡിഫറൻഷ്യൽ സമവാക്യം ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യമായിരുന്നു അതിന് ഒരു കോൺസ്റ്റന്റ് മാത്രമുള്ള ഒരു സൊല്യൂഷൻ ലഭിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇതിനെ ഒരു ജനറൽ സൊല്യൂഷൻ എന്ന് നമ്മൾ വിളിക്കുന്നു എന്നാൽ ഈ കോൺസ്റ്റൻഡിന് എന്തെങ്കിലും പ്രത്യേക മൂല്യം നൽകിയാൽ അടിസ്ഥാനപരമായി നമ്മൾ ഈ ഫാമിലിയിലെ ഒരു ഘടകത്തെയോ ഈ ഫാമിലിയിൽ നിന്നുള്ള ഒരു കർവിനെയോ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ അതിനെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നു ഉദാഹരണത്തിന് ഈ കേസിൽ നമ്മൾ ഇത് c 1 എടുക്കുകയാണെങ്കിൽ എന്നത് ഈ ഡിഫറൻഷ്യൽ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തും അത് വീണ്ടും എളുപ്പത്തിൽ കാണാൻ കഴിയും y x 1 ഇവിടെ y y പ്രൈം 1 മൈനസ് ഈ x ഉം വീണ്ടും y പ്രൈം 1 സ്ക്വയറും 1 ന് തുല്യമാണ് y x1 ഇടത് വശത്ത് y x x1 x 1 എന്നുവന്നു x ക്യാൻസൽ ആവുന്നത് നമ്മൾ കാണുന്നു അതിനാൽ 1 എന്നത് 1 ന് തുല്യമാണ് എന്നത് സ്വാഭാവികമായും തൃപ്തികരമാണ് കാരണംഏതൊരു C യ്ക്കും അത് ഡിഫറൻഷ്യൽ സമവാക്യം തൃപ്തിപ്പെടുത്തുന്നതാണ് ഇവിടെ y x 1 എന്ന കർവ് ഈ ലൈൻ ഫാമിലിയിലെ ഒരു ലൈൻ ആണ് ഇതാണ് ഒരു പർട്ടിക്കുലർ സൊലൂഷൻ ആയി നമുക്ക് ലഭിച്ചത് അതിനാൽ ഇത് ഒരു ജനറൽ സൊലൂഷൻ അല്ല തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ഒരു പർട്ടിക്കുലർ സൊലൂഷൻ ആണിത് സൊല്യൂഷൻ നിർവചിക്കുന്നതിന് മറ്റൊരു പദാവലി കൂടി ഉപയോഗിക്കുന്നു എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ എന്നും വിളിക്കുന്നു ഇവിടെ എക്സ്പ്ലീസിറ്റ് സൊല്യൂഷൻ y y ഇതിൽ ഡിപെൻഡൻറ് വേരിയബിൾനെ വലതുവശത്തായി എല്ലാം ഇൻഡിപെൻഡൻറ് വേരിയബിളുകളിൽ അടങ്ങിയിരിക്കുന്ന ഈ രൂപത്തിൽ ആയിരിക്കും തരുന്നത് y x എന്നിവ തമ്മിൽ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ബന്ധങ്ങളൊന്നുമില്ല x എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് y നൽകിയിട്ടുണ്ട് അതിനാൽ ഇതിനെ എക്സ്പ്ലീസിറ്റ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നു നമ്മുടെ ഡിഫറൻഷ്യൽ സമവാക്യത്തിൻറെ സൊലൂഷൻ ആയി ഈ രൂപത്തിൽ x y എന്നിവ തമ്മിലുള്ള വ്യക്തമായ ബന്ധം കിട്ടുന്നു എങ്കിൽ അത് ഡിഫറൻഷ്യൽ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നു അതിനാൽ ഇതിനെ ഡിഫറൻഷ്യൽ സമവാക്യത്തിൻറെ എക്സ്പ്ലീസിറ്റ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് നമ്മൾ ഈ എന്ന സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം എടുക്കുകയാണെങ്കിൽ എന്നത് സബ്സ്റ്റിട്യൂട്ചെയ്തു കൊണ്ട് ഇതൊരു എക്സ്പ്ലീസിറ്റ് സൊലൂഷൻ ആണ് എന്ന് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും കാരണം ഈ y എന്നതിന് വലതുവശത്ത് X ന്റെ പദങ്ങളിൽതന്നിരിക്കുന്നു ഇംപ്ലീസിറ്റ് സൊലൂഷനുള്ള മറ്റൊരു ഉദാഹരണം നമുക്ക് ഉണ്ട് x 3yy 0 എന്ന ഫസ്റ്റ് ഓർഡർ സമവാക്യം എടുക്കുന്നു ഈ കേസിൽ x2 3y2 c എന്നത് ഈ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നു എന്നു കാണാൻ കഴിയും അതിനാൽ ഇത് ഈ സമവാക്യത്തിൻറെ ഒരു സൊലൂഷൻ ആണ് നമ്മൾ ഇതിനെ ഡിഫറെൻഷ്യറ്റ് ചെയ്യുകയാണെങ്കിൽ 2x 6y dydx 0 എന്ന് ലഭിക്കുന്നു നമ്മൾ ഇവിടെ 2 കൊണ്ട് ഹരിച്ചാൽ x 3yy 0 എന്നുകിട്ടും അതിനാൽ സ്വാഭാവികമായും ഇത് ഈ ഡിഫറൻഷ്യൽ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നു പക്ഷേ മുമ്പത്തേതിൽ നിന്ന് ഉള്ള വ്യത്യസ്തത ഇവിടെ x y എന്നിവ തമ്മിലുള്ള ബന്ധം നൽകിയിരിക്കുന്നത് x ന്റെ കാര്യത്തിൽ y യുടെ എക്സ്പ്ലീസിറ്റ് ആയ ഒരു ബന്ധമായിട്ടല്ല മറിച്ച് x y എന്നിവയുടെ അടിസ്ഥാനത്തിൽ നൽകിയിരിക്കുന്ന ഒരു ഇംപ്ലീസിറ്റ് ബന്ധമാണ് അതിനാൽ അത്തരം സൊലൂഷനെ നമ്മൾ ഇംപ്ലീസിറ്റ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നു ഇതോടെ നമ്മൾ ഉപസംഹരിക്കുന്നു നമ്മൾ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ഓർഡറും ഡിഗ്രിയും നിർവചിച്ചിട്ടുണ്ട് കൂടാതെ നമ്മൾ സമവാക്യം ലീനിയർ ആണോ അതോ നോൺലീനിയർ ആണോ എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസിഫിക്കേഷൻ നടത്തി n പാരാമീറ്റർ ഫാമിലി കർവുകളിൽ നിന്ന് എങ്ങനെ ഡിഫറൻഷ്യൽ സമവാക്യം രൂപപ്പെടുത്താമെന്നും ഈ ലെക്ച്ചറിൽ നമ്മൾ കണ്ടു n പാരാമീറ്റർ ഫാമിലിയെ n തവണ differentiate ചെയ്യുന്നത് തുടർന്ന് പാരാമീറ്ററുകൾ ഇല്ലാതാക്കാനുള്ള n 1 സമവാക്യങ്ങളുടെ ഗണം കണ്ടെത്തി ഡിപൻഡന്റ് വേരിയബിളുകൾ ഇൻഡിപെൻഡന്റ് വേരിയബിളുകൾ അവയുടെ ഡെറിവേറ്റീവുകൾ എന്നിവ മാത്രമുള്ള ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ഒരു ബന്ധം ഡിഫറൻഷ്യൽ സമവാക്യമായി നമുക്ക് ലഭിക്കും തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താമെന്ന് ഭാവിയിലെ ലെക്ച്ചറുകളിൽ നമുക്ക് കാണാം എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സൊല്യൂഷൻ ആയി ഒരു പ്രത്യേക കർവുകളുടെ ഫാമിലി അല്ലെങ്കിൽ കർവുകളുടെ ജനറൽ ഫാമിലി എങ്ങനെ കണ്ടെത്താം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ n ആർബിട്രറി കോൺസ്റ്റന്റുകൾ അടങ്ങിയിരിക്കുന്ന nth ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ജനറൽ സൊലൂഷൻഉം നമ്മൾ ഇവിടെ ചർച്ചചെയ്തു ജനറൽ സൊല്യൂഷൻ ഒന്നുമല്ല അത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്ന കർവുകളുടെ n പാരാമീറ്റർ ഫാമിലിയാണ് ലെക്ച്ചറുൾ തയ്യാറാക്കാൻ നമ്മൾ ഉപയോഗിച്ച റഫറൻസുകൾ ഇവയാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി